പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ക്ലാസ് എന്ന് വിളിക്കുന്ന ഒരു ടെംപ്ലേറ്റിലൂടെ ഒരു ഡാറ്റാ ടൈപ്പ് നിർവചിക്കുന്നു ഇത് ആന്തരിക ഡാറ്റ ഇമ്പ്ലിമെന്റേഷനെ നിർവചിക്കുന്നു കൂടാതെ ഡാറ്റാ ടൈപ്പ് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസും കണ്ടു ഈ ഡാറ്റ ടൈപ്പിന്റെ ഒബ്ജക്റ്റുകളായി നമ്മൾ ഉദാഹരണങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു ഹീപ്പിന്റെ സ്കെലിട്ടൺ ഇമ്പ്ലിമെന്റേഷൻ നമ്മൾ കണ്ടു ഇത് ഹീപ്പ് സൃഷ്ടിക്കാൻ ഉപയോഗിച്ച init എന്ന ഒരു പ്രത്യേക ഫങ്ഷൻ ആണ് പിന്നീട് ഇൻസേർട്ട് ഡിലീറ്റ് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വിശദീകരിക്കാത്ത ഒരു കാര്യം ഇതിലൂടെ കടന്നുപോകുന്ന ഈ ആർഗ്യുമെന്റ് സെൽഫ് ആണ് ഇത് പൈത്തണിലെ ഒരു കൺവെൻഷൻ ആണ് ഒരു ക്ലാസിൽ നിർവചിച്ചിരിക്കുന്ന ഫങ്ങ്ഷന്റെ ആദ്യ പരാമീറ്ററായി സെൽഫ് എന്ന പേര് വേണം എപ്പോഴും ഇത് സെൽഫ് എന്ന് തന്നെ ആകണമെന്നില്ല എന്നാൽ സെൽഫ് എന്ന് വിളിക്കുമ്പോൾ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകുന്നില്ല ഈ പാരാമീറ്റർ എല്ലായ്പ്പോഴും ഉണ്ടെന്നും അതിനെ സെൽഫ് എന്ന് വിളിക്കുന്നുവെന്നും കരുതുക ഇപ്പോൾ സെൽഫ് എന്താണ് സെൽഫ് നമ്മൾ അന്വേഷിക്കുന്ന ഒബ്ജക്റ്റ് റഫർ ചെയ്യാൻ ക്ലാസിൽ ഉപയോഗിക്കുന്ന പേരാണ് ഉദാഹരണത്തിന് നമ്മൾ ഈ ഹീപ്പ് h കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ h ഡോട്ട് ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ ഈ ഇൻസേർട്ട് 17 മൂല്യം ഉപയോഗിക്കുന്നു 17 എന്നത് x ന്റെ മൂല്യം ആണ് അത് ഇൻസേർട്ടിലേക്ക് കൊടുക്കുന്നതാണ് h ന്റെ ഒപ്പം 17 ന്റെ മൂല്യം ചേർക്കേണ്ടതാണ് അത് സെൽഫിന്റെ ഒരു പേരാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സെൽഫ് ഏത് ഒബ്ജെക്ട് ആണ് ഫങ്ഷനിൽ പ്രവർത്തിക്കുന്നതെന്ന് അത് ഫംഗ്ഷനോട് പറയുന്നു ഇത് അതിന്റെ തന്നെ ഒരു പേരാണ് കാരണം നിങ്ങൾ ഫങ്ഷനോട് പറയുന്നുഒരു ഒരു ഒബ്ജക്റ്റ് ഹീപ്പ് h നിങ്ങളുടെ സെൽഫ് എന്നതിലേക്ക് 17 ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് ആ അർത്ഥത്തിൽ എന്റെ മൂല്യങ്ങൾ സെൽഫ് ആണ് ഒരു ഹീപ്പിനകത്തു അത് മറ്റ് ഹീപ്പുകളെ സൂചിപ്പിക്കാം നമുക്ക് ഒരു മൂല്യം എടുത്ത് മറ്റൊരു മൂല്യത്തെ പരാമർശിക്കാൻ കഴിയുമെന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം അവിടെ എന്റെ മൂല്യങ്ങളും മറ്റ് മൂല്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് സംശയരഹിതമായി എന്റെ മൂല്യങ്ങലെ എപ്പോഴും സെൽഫ് എന്ന് വിളിച്ചു കാരണം സാധാരണയായി അതാണ് ഫങ്ഷൻ കൈകാര്യം ചെയ്യുന്നത് അല്പം ലളിതമായ ഒരു ചെറിയ ഉദാഹരണം നോക്കിയാൽ ഇത് വ്യക്തമാകും നമുക്കു എല്ലാ ചിഹ്നങ്ങളും പദാവലിയും ഉള്ള ഒരു ഹീപ്പ് നോക്കാം നമ്മുടെ ആദ്യത്തെ ഉദാഹരണം x y പോയിന്റിന്റെ പ്രാതിനിധ്യം മാത്രമാണ് അതുകൊണ്ട് നമുക്ക് X ആക്സിസ് y ആക്സിസ് ഉള്ള ഒരു നോർമൽ കോഓർഡിനേറ്റ് സിസ്റ്റം നോക്കാം ഒരു നിശ്ചിത പോയിന്റിന് എ കോമ ബി പോലെ ചില കോർഡിനേറ്റ് നൽകുന്നു ഈ പോയിന്റെ ഒരു x കോഓർഡിനേറ്റ് എ y കോഓർഡിനേറ്റ് ബി ആണ് ഈ പരിചിതമായ ആശയം നിങ്ങൾ എല്ലാവരും ഗണിതത്തിൽ കണ്ടിരുന്നത് ആണ് അത്തരമൊരു ഒബ്ജക്റ്റുമായി രണ്ട് കാര്യങ്ങളെ ബന്ധപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇത് സജ്ജമാക്കാൻ init ഫങ്ഷനിലേക്ക് നിങ്ങൾ പോയിന്റിന്റെ എ ബി എന്നീ മൂല്യങ്ങൾ കൈമാറുന്നു ഇപ്പോൾ നമുക്ക് പോയിന്റിനുള്ളിൽ ഉണ്ട് നമുക്ക് x y എന്നീ രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട് അതായത് ഓരോ പോയിന്റും ഇതുപോലെ കാണപ്പെടുന്നു ഇതിന് ഒരു x മൂല്യവും ഒരു y മൂല്യവുമുണ്ട് ഈ x മൂല്യം എന്തോ ആണ് y മൂല്യം എന്തോ ആണ് നമ്മൾ ഈ x y മൂല്യം മാറ്റുകയാണെങ്കിൽ പോയിന്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു ഇപ്പോൾ x y എന്നിവ ഈ പോയിന്റിന്റെ ആണെന്നും മറ്റൊന്നുമല്ലെന്നും സ്ഥാപിക്കാൻ നമ്മൾ അത് സെൽഫ് എന്ന് പ്രിഫിക്സ് ആയി എഴുതുന്നു സെൽഫ് ഡോട്ട് x എന്നത് ഈ പോയിന്റിനുള്ളിലെ x മൂല്യത്തെ സൂചിപ്പിക്കുന്നു സെൽഫ് ഡോട്ട് y എന്നത് പോയിന്റിന്റെ y മൂല്യമാണ് നിങ്ങൾക്ക് ഒരു ജനറിക് പോയിന്റ് p ഉണ്ടെങ്കിൽ നമുക്ക് p dot x ഉണ്ട് p dot y ഉണ്ട് ഇവ സൂചിപ്പിക്കുന്നത് x y എന്ന മൂല്യങ്ങൾ p എന്ന പോയിന്റുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ക്ലാസ് നിർവചനത്തിനുള്ളിൽ സെൽഫ് എന്നത് ആട്രിബ്യൂട്ടിന്റെ മൂല്യത്തെയോ ഈ പ്രത്യേക ഒബ്ജക്റ്റിലെ പേരിനെയോ സൂചിപ്പിക്കുന്നു നമ്മൾ ഒരു ഒബ്ജെക്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ ഈ പ്രത്യേക ഒബ്ജെക്ട് മാറുന്നു പക്ഷേ ഓരോ ഒബ്ജെക്ടിനും സെൽഫ് എന്നാൽ അതുതന്നെയാണ് p 1 ന് ഞാൻ p 1 നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സെൽഫ് p 1 ആണ് എനിക്ക് വ്യത്യസ്ത പോയിന്റ് p2 ഉണ്ടെങ്കിൽ P2 ന്റെ പശ്ചാത്തലത്തിൽ സെൽഫ് p2 ആണ് ഇത് ഒരു പ്രധാന കാര്യമാണ് ക്ലാസ് നിർവചനത്തിനുള്ളിലെ ഓരോ ഫംഗ്ഷനും എല്ലായ്പ്പോഴും ആദ്യത്തെ ആർഗ്യുമെന്റ് സെൽഫ് ആയിരിക്കണം തുടർന്ന് യഥാർത്ഥ ആർഗ്യുമെന്റ് ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിക്കുക ഈ കേസിൽ init രണ്ട് ആർഗ്യുമെന്റുകൾ എടുക്കുന്നു പക്ഷേ നമ്മൾ എല്ലായ്പ്പോഴും മൂന്നാമത്തെ ആർഗ്യുമെന്റ് ചേർക്കുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് p ഈക്വൽ റ്റു പോയിന്റ് 3 2 ആണ് എന്ന് പറഞ്ഞാൽ 3 a ആയി കൈമാറും 2 b ആയി കൈമാറും ഇത് നാം ഇവിടെ വരച്ചതുപോലെ ഒരു പോയിന്റ് സ്ഥാപിക്കും ആന്തരികമായി ഇത് സെൽഫ് ഡോട്ട് X 3 ആയി പ്രതിനിധീകരിക്കുന്നു സെൽഫ് ഡോട്ട് Y ഇപ്പോൾ ഇവിടെ 2 ആണ് ഇത് അല്പം വ്യത്യസ്തമായ ഫങ്ഷൻ ആണ് അത് ഒരു പോയിന്റ് എടുത്ത് അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു ഇത് 3 പ്ലസ് ഡെൽറ്റ x 4 പ്ലസ് ഡെൽറ്റ y എന്നിവയിലേക്ക് മാറ്റുക നമ്മൾ ഈ ഫങ്ഷനെ ട്രാൻസ്ലേറ്റ് എന്ന് വിളിച്ചു ഇത് ആർഗ്യുമെൻറ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്നിങ്ങനെ ഷിഫ്റ്റിന്റെ അളവ് എടുക്കുന്നു പതിവുപോലെ നമ്മൾ എല്ലായ്പ്പോഴും ആദ്യത്തെ ആർഗ്യുമെന്റായി സെൽഫ് നൽകുന്നു ഓരോ പൈത്തൺ ഫംഗ്ഷനും ഓരോ പൈത്തൺ ക്ലാസുംഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ശൈലിയിൽ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെ ആർഗ്യുമെന്റ് സെൽഫ് ആയിരിക്കണം തുടർന്ന് യഥാർത്ഥ ആർഗ്യുമെന്റുകൾ ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്തുചെയ്യണം നമ്മൾ സെൽഫ് ഡോട്ട് എക്സ് എടുത്ത് സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ലേക്ക് മൂല്യം മാറ്റുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വേണം പൈത്തണിലെ സാധാരണ മാതൃക ആണിത് മറ്റു ചില പ്രോഗ്രാമിങ് ലാംഗ്വേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് z എടുത്തു അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ z പ്ലസ് 6 അല്ലെങ്കിൽ z ഈക്വൽ ടു z മൈനസ് 6 ചെയ്താൽ മതി നമുക്ക് ഒരേ പേര് അപ്ഡേറ്റുചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഒരു ചെറിയ ഫോം ഉണ്ട് അവിടെ നമുക്ക് ഈ ഓപ്പറേഷനെ അസൈൻമെന്റുമായി സംയോജിപ്പിക്കാൻ കഴിയും സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് ഈക്വൽ റ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം പൈത്തണിലെ ഈ ഷോർട്ട് കട്ട് സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ റ്റു സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് നു തുല്യമാണ് അസൈൻമെന്റ് പ്രവർത്തനത്തോടൊപ്പം സൂചിപ്പിച്ച പ്രവർത്തനത്തിന്റെ ആദ്യ ആർഗ്യുമെന്റാണ് ഇടതുവശത്തുള്ള പേര് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇത് വളരെ സൌകര്യപ്രദമായ കുറുക്കുവഴിയാണ് ഇത് കുറച്ച് ടൈപ്പിംഗ് സമയം ലാഭിക്കാൻ നമ്മളെ അനുവദിക്കുന്നു സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ റ്റു സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നതിനുപകരം നമ്മൾ പറയുന്നത് സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് ഈക്വൽ റ്റു ഡെൽറ്റ എക്സ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് നൽകിയിരിക്കുന്ന ഈ ആർഗ്യുമെൻറ് ഉപയോഗിച്ച് നിലവിലെ പോയിന്റിലെ x കോർഡിനേറ്റ് ഇത് മാറ്റുന്നു അതുപോലെ സെൽഫ് ഡോട്ട് വൈ പ്ലസ് ഈക്വൽ റ്റു ഡെൽറ്റ y ഡെൽറ്റ y നൽകിയ തുക ഉപയോഗിച്ച് ഈ ആർഗ്യുമെന്റിനെ മാറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ p ഡോട്ട് ട്രാൻസ്ലേറ്റ് 2 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ പോയിന്റ് ലഭിക്കും അത് x കോർഡിനേറ്റിന് 3 പ്ലസ് 2 5 ഉം 2 പ്ലസ് 1 3 ഉം ആണ് ഈ 3 പ്ലസ് 2 നമുക്ക് 5 നൽകുന്നു കൂടാതെ 2 പ്ലസ് 1 നമുക്ക് 3 നൽകുന്നു അതിനാൽ ഈ പോയിന്റ് 3 2 ൽ നിന്ന് 53 ലേക്ക് മാറ്റുന്നു ഈ ഇന്റേണൽ നമ്മൾ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് init ഫംഗ്ഷനുള്ളിൽ ഇന്റേണൽ ഇമ്പ്ലിമെന്റേഷൻ നിർവചിക്കപ്പെടുന്നു പോയിന്റ് സജ്ജമാക്കുമ്പോൾ വിളിക്കുന്ന ഫംഗ്ഷനാണിത് ഇത് x y എന്നീ ഇന്റേണൽ നെയിം ഒബ്ജക്റ്റുകളുമായി ബന്ധപ്പെടുത്തുന്നു ഇവിടെയാണ് ഇമ്പ്ലിമെന്റേഷൻ ശരിക്കും സജ്ജീകരിക്കുന്നത് തുടർന്നു ബാഹ്യമായി നിർവചിക്കുന്ന ട്രാൻസ്ലേറ്റ് പോലെയുള്ള ഫങ്ഷൻസ് ഈ ഇന്റേണൽ പ്രവർത്തനങ്ങൾ ഉചിതമായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു ഫങ്ഷൻസ് പ്രതീക്ഷിക്കുന്ന പോലെ ഇത് സ്ഥിരമായി മാറുന്നു നമുക്ക് വിവിധ ഫംഗ്ഷനുകൾ നോക്കാം ഒരു പോയിന്റിന്റെ ഉത്ഭവസ്ഥാനത്തു നിന്നുള്ള ദൂരം കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഈ ദൂരം എന്താണെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പൈതഗോറസിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഈ ദൂരം സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ് ഇത് റൈറ്റ് ആംഗിൾ ത്രികോണത്തിന്റെ ഹൈപ്പോടെന്യുസ് പോലെയാണെന്ന് ഓർമ്മിക്കുക സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കു d കിട്ടും നിങ്ങൾക്ക് ഒരു പോയിന്റിന്റെ ദൂരം വേണമെങ്കിൽ നമ്മൾ അതിന് ഒരു ആർഗ്യുമെന്റും നൽകുന്നില്ല പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും ഈ സെൽഫ് എന്ന ആർഗ്യുമെന്റ് ഉണ്ട് 0 0 ൽ നിന്ന് നിലവിലെ പോയിന്റിലേക്കുള്ള ദൂരം എന്താണെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മുമ്പത്തെ കേസിൽ p ഈക്വൽ റ്റു പോയിന്റ് 3 4 എന്ന് പറയുന്നു തുടർന്ന് അതിന്റെ ദൂരം ലഭിക്കുന്നതിന് p ഡോട്ട് o ഡിസ്റ്റൻസ് എന്ന് പറയും ഒരുപക്ഷേ നമുക്ക് ഇത് ഒരു പേരുമായി അസൈൻ ചെയ്യാം അതിനെ n പോലുള്ള ഒരു പേര് നൽകാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് സെൽഫ് ഡോട്ട് x ന്റെ നിലവിലെ മൂല്യം നോക്കും സെൽഫ് ഡോട്ട് y യുടെ മൂല്യം എടുക്കും അവയെ സ്ക്വയർ ചെയ്യും ഇനി അവയെ ചേർത്ത് സ്ക്വയർ റൂട്ട് എടുക്കും ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ സ്ക്വയർ റൂട്ട് പൈത്തണിൽ സാധാരണയായി ലഭ്യമാകുന്ന ഒരു ഫങ്ഷൻ അല്ല നിങ്ങൾ അത് യഥാർത്ഥത്തിൽ മാത്ത് ലൈബ്രറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ക്ലാസ് ഡെഫിനിഷ്യന്റെ മുകളിൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് എഴുതാൻ നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം നമ്മൾ അത് ചെയ്തുവെന്ന് കരുതുക തുടർന്ന് സ്ക്വയർ റൂട്ട് നിർവചിക്കപ്പെടുന്നു പോയിന്റിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകുന്ന ഒരു സാധാരണ ഫംഗ്ഷനാണിത് മുമ്പത്തെ ഫങ്ഷൻ പോയിന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു നമ്മളോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പോയിന്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഫംഗ്ഷനാണിത് ഇപ്പോൾ ദൂരം നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് ആയതുകൊണ്ട് പോയിന്റിനെ പ്രതിനിധീകരിക്കാൻ അതിനു ഉപയോഗപ്രദമായ മറ്റൊരു പ്രാതിനിധ്യം നോക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗണിതശാസ്ത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങൾ പോയിന്റ് x y എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് യഥാർത്ഥത്തിൽ പോളാർ കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു ബദൽ മാർഗം നിങ്ങൾക്ക് ഈ ദൂരം ഉണ്ട് നിങ്ങൾക്ക് ഈ ആംഗിൾ ഉണ്ട് എനിക്ക് r ഉം തീറ്റയും ഉണ്ടെങ്കിൽ അത് x y എന്നിവ സൂക്ഷിക്കുന്ന പോലെയുള്ള അതേ വിവരമാണ് രണ്ടും തമ്മിലുള്ള ബന്ധം x എന്നത് r കോസ് തീറ്റയാണ് ഇവിടെ കോസ് എന്നത് ട്രിഗണോമെട്രിക് കോസൈൻ ഫംഗ്ഷനാണ് y എന്നത് r സൈൻ തീറ്റയ്ക്ക് തുല്യമാണ് എന്നാൽ മറുവശത്ത് X y എന്നിവ നമുക്കുണ്ട് എങ്കിൽ R എന്നാൽ നമ്മൾ നേരത്തെ ദൂരം ചെയ്തതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ് ഒപ്പം തീറ്റ Y ബൈ X ആണ് ഇപ്പോൾ ടാൻ തീറ്റ കിട്ടും കാരണം സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ് r ക്യാൻസൽ ആകുന്നു അങ്ങിനെ y ബൈ x ടാൻ തീറ്റ ആണ് ഇപ്പോൾ തീറ്റ ഈക്വൽ റ്റു ടാൻ ഇൻവേഴ്സ് Y ബൈ X എന്ന് കിട്ടും ഇപ്പോൾ ഇമ്പ്ലിമെന്റേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമ്പ്ലിമെന്റേഷൻ മാറ്റാൻ കഴിയും അതിനാൽ x y എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്റേണൽ ഇമ്പ്ലിമെന്റേഷൻ ചെയ്യാതെ നമ്മൾ അത് യഥാർത്ഥത്തിൽ r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സൂക്ഷിക്കുന്നു പക്ഷേ ഫംഗ്ഷനുകൾ അതേപടി തുടരുന്നു ഉദാഹരണത്തിന് നമുക്ക് മുമ്പത്തെ നിർവചനം എടുത്ത് അത് മാറ്റാം നമ്മൾ ഇവിടെ വീണ്ടും x y എന്നിവ കൈമാറുന്നു ഉപയോക്താവിൻറെ പ്രതീക്ഷയിൽ പോയിന്റ് x y കോർഡിനേറ്റ് അനുസരിച്ചാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് ഉപയോക്താവ് വിശ്വസിക്കുന്നു എന്നാൽ പോയിന്റ് സജ്ജീകരിക്കുന്നതിന് നേരിട്ട് a b എന്നിവ ആർഗ്യുമെന്റായി ഉപയോഗിക്കുന്നതിനുപകരം നമ്മൾ ആദ്യം r ദൂരം സ്ക്വയർ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് എടുത്തു ഇപ്പോൾ b യെ a കൊണ്ട് ഹരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ a 0 ആണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക കേസ് ആകും b ബൈ a നമുക്ക് ഒരു എറർ നൽകും അതുകൊണ്ട് a 0 ആണെങ്കിൽ നമ്മൾ ആംഗിൾ 0 ആയി എടുക്കുന്നു അല്ലെങ്കിൽ ഈ എ ടാൻ ബി ബൈ എ ഈ എ ടാൻ പൈത്തണിലെ മാത്ത് ലൈബ്രറിയിൽ ടാൻ ഇൻവേഴ്സിന് വേണ്ടിയുള്ള ഫങ്ഷൻ ആണ് അതുകൊണ്ട് നമ്മൾ ആന്തരികമായി എക്സ് വൈ എന്നതിന് പകരം R തീറ്റ ഉപയോഗിക്കുന്നു നേരത്തെ എടുത്ത അതേ ഫോർമുല തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു R ഈക്വൽ റ്റു സ്ക്വയർ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ് തീറ്റ ഈക്വൽ റ്റു ടാൻ ഇൻവേഴ്സ് Y ബൈ X ആണ് X എന്നത് 0 ന് തുല്യമാകുമ്പോൾ നമ്മൾ സ്വമേധയാ തീറ്റയെ 0 ആയി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ആന്തരികമായി നമ്മൾ സെൽഫ് ഡോട്ട് ആർ സെൽഫ് ഡോട്ട് തീറ്റ എന്നിവ സൂക്ഷിക്കുന്നു നമ്മൾ സെൽഫ് ഡോട്ട് x ഉം സെൽഫ് ഡോട്ട് വൈയും സൂക്ഷിക്കുന്നില്ല കാരണം നമുക്ക് ഒറിജിൻ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ യാതൊരു കംപ്യൂട്ടിങ്ങ് ചെയ്യാതെ R മൂല്യം മാത്രം റിട്ടേൺ ചെയ്താൽ മതി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും o ഡിസ്റ്റൻസ് ഉപയോഗിക്കാൻ പോകുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ കണക്കുകൂട്ടൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ പോയിന്റ് സജ്ജമാക്കുമ്പോൾ r മൂല്യം മാത്രം ഒരു കണക്കുകൂട്ടലും കൂടാതെ റിട്ടേൺ ചെയ്യുന്നു നമുക്ക് ഒറിജിനിൽ നിന്നുള്ള ദൂരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് അനുസരിച്ച് ആവശ്യം വരാം ഒരു ഇമ്പ്ലിമെന്റേഷൻ മറ്റൊന്നിനേക്കാൾ മികച്ചതാകാം എന്നാൽ ഉപയോക്താവിന്റെ വീക്ഷണകോണിൽ നിന്ന് ഒരേ ഫംഗ്ഷൻ ആണ് അവിടെ ഉള്ളത് അവിടെ സെൽഫ് ഉണ്ട് അവിടെ o ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ ഒരു പോയിന്റ് എടുത്തു എങ്കിൽ ഞാൻ o ഡിസ്റ്റൻസ് എടുക്കും എനിക്ക് പോയിന്റ് എക്സ് വൈ അല്ലെങ്കിൽ R തീറ്റ ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്താലും ഇല്ലെങ്കിലും ഒറിജിനിൽ നിന്നുള്ള അകലം ലഭിക്കും ഇപ്പോൾ തീർച്ചയായുംo ഡിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ r തീറ്റ ആണ് നല്ലത് എന്നാൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നല്ലതല്ല എനിക്ക് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഉപയോഗിച്ച് പോയിന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പോയിന്റ് r തീറ്റയിൽ നിന്ന് x y ലേക്ക് തിരിച്ചു പരിവർത്തനം ചെയ്യണം അതിന് x ഈക്വൽ റ്റു r കോസ് തീറ്റ y ഈക്വൽ റ്റു r സൈൻ തീറ്റ ഉപയോഗിക്കണം ഇനി x പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ y എന്നിവ ചെയ്ത് അത് വീണ്ടും r തീറ്റയിലേക്ക് പരിവർത്തനം ചെയ്യുക നിങ്ങൾ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ ഇത് ചെയ്യുന്നു xy പ്രാതിനിധ്യം ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് മികച്ചതാണ് r തീറ്റ പ്രാതിനിധ്യം ഉപയോഗിച്ച് o ഡിസ്റ്റൻസ് നല്ലതാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട തരത്തിലുള്ള ഒത്തുതീർപ്പിന്റെ വളരെ സാധാരണമായ ഒരു കേസാണിത് ഈ പ്രവർത്തനങ്ങളിൽ ഏതാണ് കൂടുതൽ സാധാരണവും നിങ്ങൾക്ക് നേരിട്ട് നടപ്പിലാക്കാൻ കൂടുതൽ ഉപയോഗപ്രദവുമാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് ട്രാൻസ്ലേറ്റ് പലപ്പോഴും സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ x y യുടെ ഉപയോഗം മെച്ചപ്പെട്ടതാകും ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതൽ പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ r തീറ്റ എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത് പലപ്പോഴും നല്ല ഉത്തരം ഒന്നും തന്നെയില്ല ഇത് പ്രയോറിറ്റി ക്യൂവിനായി സോർട്ടഡ് ലിസ്റ്റ് ഇമ്പ്ലിമെന്റേഷനെക്കാൾ ഒരു ഹീപ്പ് ഇമ്പ്ലിമെന്റേഷൻ എല്ലായ്പ്പോഴും മികച്ചതാണെന്ന് പറയുന്നത് പോലെയല്ല ഇത് അവിടെ ഒരു താരതമ്യം ആവശ്യമാണ് ഒരു ഡാറ്റാ സ്ട്രക്ച്ചറിന്റെ ഉപയോഗം അനുസരിച്ച് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇന്റേണൽ ഇമ്പ്ലിമെന്റേഷൻ ആണ് ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുന്നത് എന്നതെല്ലാം അനുസരിച്ച് എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ടത് ഇമ്പ്ലിമെന്റേഷൻ ഫങ്ഷന്റെ പ്രവർത്തനരീതിയിൽ മാറ്റം വരുത്തരുത് എന്നതാണ് ബാഹ്യ ഉപയോക്താവിന് ഫങ്ഷൻ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം ഈ പ്രത്യേക ഉദാഹരണത്തിൽ നമ്മൾ കണ്ടകാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കാൻ പോകുന്നു നാം സ്വകാര്യ ഇമ്പ്ലിമെന്റേഷൻ മാറ്റി അതായത് നമ്മൾ എക്സ് വൈ എന്നിവക്ക് പകരം R തീറ്റ ഉപയോഗിച്ചു എന്നാൽ പബ്ലിക് ഇന്റർഫേസിന്റെ ഫങ്ഷന്റെ പ്രവർത്തനങ്ങൾ അതായത് ട്രാൻസ്ലേറ്റ് ഓ ഡിസ്റ്റൻസ് എന്നിവ കൃത്യമായി അതേപോലെ തന്നെ തുടരും പൈത്തൺ ഫംഗ്ഷനുകളിൽ ഡിഫോൾട്ട് ആർഗ്യുമെന്റുകൾ നൽകാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു ചിലപ്പോൾ ആർഗ്യുമെന്റ് ഓപ്ഷണൽ ആകാം ഉദാഹരണത്തിന് ഒരു പോയിന്റിൽ നമ്മൾ x y കോർഡിനേറ്റുകൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയി ആ പോയിന്റ് ഒറിജിനിൽ തന്നെ വരും ഡിഫോൾട്ട് ആർഗ്യുമെന്റുകളായി നമുക്ക് എ ഈക്വൽ റ്റു 0 b ഈക്വൽ റ്റു 0 എന്ന് ഉപയോഗിക്കാം അതിനാൽ ഉപയോക്താവ് a b എന്നിവയ്ക്ക് മൂല്യങ്ങൾ നൽകിയില്ലെങ്കിൽ x 0ഉം y0 ഉം ആയി പോയിന്റ് സജ്ജമാക്കും ഉദാഹരണത്തിന് ഒരു പ്രത്യേക സ്ഥലത്ത് 3 കോമ 4 ഒരു പോയിന്റ് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഈ ക്ലാസ് ഇൻവോക്ക് ചെയ്യും തുടർന്ന് 3 കോമ 4 എന്ന ആർഗ്യുമെൻറ് നൽകി നമ്മൾ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു പക്ഷേ പി 2 പോലുള്ള ഒരു ആർഗ്യുമെന്റും നമ്മൾ കൈമാറുന്നില്ലെങ്കിൽ നമുക്ക് ഒറിജിനിൽ ഒരു പോയിന്റ് ലഭിക്കും ഈ ഫംഗ്ഷൻ init ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ആണ് കാരണം ഈ രണ്ടു വശത്തുമുള്ള അണ്ടർസ്കോർ ആണ് പൈഥൺ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ സാധാരണയായി ഇത് കാണാറില്ല നമ്മൾ പറഞ്ഞതുപോലെ പൈത്തൺ ഇനിറ്റിനെ കൺസ്ട്രക്ടർ ആയി വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് പി ഈക്വൽ റ്റു 0 54 പോലുള്ള ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുമ്പോൾ ഇത് പരോക്ഷമായി init നെ വിളിക്കുന്നു കൂടാതെ സെൽഫ് ഡോട്ട് x സെൽഫ് ഡോട്ട് വൈ സജ്ജീകരിക്കുന്നതിന് init ഉപയോഗിക്കുന്നു പോയിന്റിന്റെ ഇന്റേണൽ പ്രാതിനിധ്യം init വഴി ശരിയായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു init ഒരു പ്രത്യേക ഫങ്ഷൻ ആണ് ഇപ്പോൾ പൈത്തണിന് മറ്റ് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ പൊതുവായി ചെയ്യുന്ന ഒരു കാര്യം ഒരു ഒബ്ജെക്ട്ന്റെ മൂല്യം പ്രിന്റൌട്ട് എടുക്കുക അതായത് ഒരു ഒബ്ജെക്ടിൽ അടങ്ങിയിരിക്കുന്നതെന്താണ് ഇതിനായി ഒബ്ജക്റ്റ് ഒരു സ്ട്രിംഗിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് ഏറ്റവും സൌകര്യപ്രദമായ മാർഗം സ്ട്രിംഗ് ഫംഗ്ഷൻ str സാധാരണയായി ഒരു ഒബ്ജക്റ്റിനെ ഒരു സ്ട്രിംഗിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നാൽ ഒരു ഒബ്ജക്റ്റിനായി സ്ട്രിംഗ് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ എങ്ങനെ വിവരിക്കും അതിനു കഴിയുന്ന പ്രത്യേക ഫംഗ്ഷനുണ്ട് അത് അണ്ടർസ്കോർ അണ്ടർസ്കോർ str ആണ് അണ്ടർസ്കോർ അണ്ടർസ്കോർ str നമ്മൾ str ഓഫ് o എന്ന് എഴുതുമ്പോൾ അണ്ടർസ്കോർ അണ്ടർസ്കോർ str നെ അത് പരോക്ഷമായി സൂചിപ്പിക്കും str ഓഫ് ഒബ്ജക്റ്റ് ഒ എന്നാൽ ഓ ഡോട്ട് അണ്ടർസ്കോർ അണ്ടർസ്കോർ str ആണ് ഉദാഹരണത്തിന് പ്രിന്റ് ഫംഗ്ഷൻ പ്രിന്റ്റിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏത് പേരും എടുക്കുകയും അതിനെ ഒരു സ്ട്രിംഗ് ആയി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു പ്രിന്റ് x എന്ന് സ്ട്രിംഗ് ഞാൻ പറയുമ്പോൾ x ഒരു പൂർണ്ണസംഖ്യയാണ് അപ്പോൾ str ഓഫ് x ആണ് പ്രദർശിപ്പിക്കുന്നത് str ഇൻവോക് ചെയ്യുന്നു അതാകട്ടെ ആന്തരികമായി അണ്ടർസ്കോർ str അണ്ടർസ്കോർ എന്ന സ്പെഷ്യൽ ഫങ്ഷനെ വിളിക്കുന്നു നമ്മുടെ പോയിന്റ് കാര്യത്തിന് ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് പോയിന്റ് പ്രതിനിധീകരിക്കണമെങ്കിൽ ആന്തരികമായി സെൽഫ് ഡോട്ട് X ചെയ്യുന്നു സെൽഫ് ഡോട്ട് Y ചെയ്യുന്നു പോയിന്റുകൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഫോം X Y ൽ ഇത് പ്രിന്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ str സജ്ജീകരിച്ചു സെൽഫ് എല്ലായ്പ്പോഴും ഒരു പാരാമീറ്ററാണെന്ന് ഓർമ്മിക്കുക ഇത് ഒരു സ്ട്രിംഗ് സൃഷ്ടിക്കുന്നു രണ്ടു അറ്റത്തും ആദ്യം ഓപ്പൺ ബ്രാക്കറ്റും അവസാനം ക്ലോസ് ബ്രാക്കറ്റും നടുവിൽ കോമയും ഉപയോഗിച്ച് ഓപ്പൺ ബ്രാക്കറ്റ് കോമ എന്നിവയുടെ ഇടയിൽ സെൽഫ് ഡോട്ട് X ഉപയോഗിച്ച് സ്ട്രിംഗ് പ്രാതിനിധ്യം ഇടുന്നു കോമയുടെയും അടുത്ത ബ്രാക്കറ്റിന്റെയും ഇടയിൽ സെൽഫ് ഡോട്ട് Y എഴുതി സ്ട്രിംഗ് പ്രാതിനിധ്യം സൃഷ്ടിക്കുന്നു ഇത് മൂല്യത്തിൽ നിന്ന് ഒരു സ്ട്രിംഗ് സൃഷ്ടിക്കുന്നു ആന്തരികമായിഇത് സെൽഫ് ഡോട്ട് എക്സ് സെൽഫ് ഡോട്ട് വൈ എന്നീ മൂല്യങ്ങളിൽ നിന്ന് സ്ട്രിംഗ് അഭ്യർത്ഥിക്കുകയും തുടർന്ന് ഈ അധിക കാര്യങ്ങൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും കോമയും നിർമ്മിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ ഒരു പോയിന്റായി പ്രദർശിപ്പിക്കുകയും ചെയ്യും പൈത്തണിന് ഉള്ള മറ്റൊരു രസകരമായ സ്പെഷ്യൽ ഫംഗ്ഷൻ ആഡ് ആണ് നമ്മൾ പ്ലസ് ഫങ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ ആഡ് ഇൻവോക് ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പി 1 പ്ലസ് പി 2 ഇവ രണ്ട് പോയിന്റുകളാണെങ്കിൽ ഇത് പി 1 അണ്ടർസ്കോർ അണ്ടർസ്കോർ ആഡ് പി 2 നെ ഇൻവോക് ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് പി 1 ഉണ്ടെങ്കിൽ എനിക്ക് പി 2 ഉണ്ടെങ്കിൽ എനിക്ക് ഇവ രണ്ടും സംയോജിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്തെങ്കിലും തരും എനിക്ക് x കോർഡിനേറ്റ് p 1 പ്ലസ് p 2 y കോർഡിനേറ്റ് p 1 പ്ലസ് p 2 എന്നിങ്ങനെ ലഭിക്കുന്നു ഇത് നമ്മുടേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ രീതിയിൽ ആയിരിക്കണമെന്നല്ല പക്ഷേ ഞാൻ p 1 പ്ലസ് p 2 എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കിയ ഫങ്ഷൻ ആഡ് എന്നതാണ് ആഡ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിർവചിക്കേണ്ടത് നമ്മളാണ് നമുക്ക് രണ്ട് പോയിന്റുകളുടെ x കോർഡിനേറ്റ് y എന്നിവ ഏകോപിപ്പിച്ച് ഒരു പുതിയ പോയിന്റ് നിർമ്മിക്കണം നമ്മൾ അത് ചെയ്യേണ്ട രീതി ഇതാണ് നമ്മൾ ഒരു പുതിയ പോയിന്റ് സൃഷ്ടിക്കും അതിന്റെ x കോർഡിനേറ്റ് സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് പി ഡോട്ട് എക്സ് ആയിരിക്കും ഇപ്പോൾ ശ്രദ്ധിക്കുക ഈ കേസിൽ p 1 മായി ബന്ധപ്പെട്ട ഫങ്ഷൻ ആണ് സെൽഫ് ആഡ് സെൽഫ് p 1 നെ സൂചിപ്പിക്കുന്നു ഞാൻ p 1 പ്ലസ് p 2 എന്നു എഴുതി മറ്റ് ആർഗ്യുമെൻറ് p 2 എന്നാൽ പോയിന്റ് p ആണ് അങ്ങനെ ഞാൻ പി യുടെ മൂല്യങ്ങൾ നോക്കാം അത് പി ഡോട്ട് X P ഡോട്ട് Y ആണ് ഞാൻ മൈ വാല്യൂ നോക്കി സെൽഫ് ഡോട്ട് എക്സ് സെൽഫ് ഡോട്ട് Y ഇപ്പോൾ ഇത് സംയോജിപ്പിച്ച് ഞാൻ ഒരു പുതിയ പോയിന്റ് ഉണ്ടാക്കാൻ കഴിയും സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് പി ഡോട്ട് x സെൽഫ് ഡോട്ട് x പ്ലസ് പി ഡോട്ട് വൈ ഉദാഹരണത്തിന് നമുക്ക് 12 25 എന്നിങ്ങനെ രണ്ട് പോയിന്റുകളുണ്ടെങ്കിൽ ഇത് 3 7 എന്ന പോയിന്റ് മടക്കി നൽകും ഞാൻ അത് പുതിയ പോയിന്റിൽ സൂക്ഷിക്കണം അതിനാൽ p 3 ഇപ്പോൾ x കോർഡിനേറ്റ് 3 ഉം y കോഓർഡിനേറ്റ് 7 ഉം ആയ ഒരു പുതിയ പോയിന്റായി മാറുന്നു അതുപോലെ ഒരു ഗുണനം നിർവ്വചിക്കുവാനുള്ള പ്രത്യേക ഫങ്ഷൻ ഉണ്ട് പൈത്തണിൽ അണ്ടർസ്കോർ അണ്ടർസ്കോർ mult ഫങ്ഷൻ മാൾട്ടിപ്ലൈ പരോക്ഷമായി വിളിക്കുന്ന ഫങ്ഷൻ ആണ് അതുപോലെ നമുക്ക് താരതമ്യങ്ങൾ നിർവചിക്കാം p 1 p 2 നെക്കാൾ കുറവാണോ എന്ന് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം രണ്ട് കോർഡിനേറ്റുകളും കുറവാണോ എന്ന് നമ്മൾ പരിശോധിക്കണോ അതോ ഒറിജിനിൽ നിന്നുള്ള ദൂരം കുറവാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം ഇത് എങ്ങനെ നിർവചിക്കാമെന്നതിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ എളുപ്പത്തിൽ വായിക്കാൻ നമ്മൾ p 1 ലെസ്സ് ദാൻ പി 2 എന്ന് എഴുതുന്നു ആന്തരികമായി ഇത് ലെസ്സ് ദാൻ lt എന്ന ഒരു ഫംഗ്ഷനെ വിളിക്കും അതുപോലെ തന്നെ ഗ്രെറ്റർ ദാൻ gt എന്ന ഫംഗ്ഷനെ വിളിക്കുന്നു കൂടാതെ ലെസ്സ് ദാൻ ഈക്വൽ റ്റു ഗ്രെറ്റർ ദാൻ ഈക്വൽ റ്റു ഇതിനൊക്കെ ഫങ്ഷൻസ് ഉണ്ട് ഇവയെല്ലാം പൈത്തൺ പരോക്ഷമായി വിളിക്കാൻ അനുവദിക്കുന്ന വളരെ സൌകര്യപ്രദമായ ഫംഗ്ഷനുകളാണ് കൂടാതെ നമ്മുടെ കോഡിൽ പരമ്പരാഗത ഓപ്പറേറ്റർമാരെയും പരമ്പരാഗത ഫംഗ്ഷനുകളെയും ഉപയോഗിക്കാൻ അനുവദിക്കുന്നു നമ്മുടെ പ്രോഗ്രാമുകൾ കോഡ് ചെയ്യുമ്പോൾ ഈ ഒബ്ജെക്ട് ക്കളെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടതില്ല അത്തരം നിരവധി ഫംഗ്ഷനുകൾ ഉണ്ട് അവയുടെ പട്ടിക ഉണ്ടാക്കാൻ സാധ്യമാണ് എന്നാൽ പൈഥൺ പഠനത്തിന്റെ ഈ ആമുഖ ഘട്ടത്തിൽ അവയെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്നത് ഉപയോഗപ്രദമല്ല എന്നാൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൈത്തൺ ഡോക്യുമെന്റേഷൻ എടുത്തു നോക്കിയാൽ ഒബ്ജെക്ട് ക്ലാസ് എന്നിവക്കായി നിർവചിച്ചിരിക്കുന്ന പ്രത്യേക ഫങ്ഷൻസ് നിങ്ങൾക്ക് കാണാനാകും